ക്ലൌഡിലെ റിസോഴ്സ് മാനേജ്മെന്റിനെക്കുറിച്ചുള്ള ചർച്ച നമ്മൾ തുടരും റിസോഴ്സ് മാനേജ്മെന്റിനെക്കുറിച്ചുള്ള അവസാന പ്രഭാഷണമോ അവസാന 2 പ്രഭാഷണങ്ങളോ നമ്മൾ ചർച്ച ചെയ്തത് മൊത്തത്തിലുള്ള ക്ലൌഡ് സേവനത്തിൽ ഇത് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുവെന്ന് നമ്മൾ കാണാൻ ശ്രമിച്ചു സേവന ദാതാവിന്റെ കാഴ്ചപ്പാടിൽ നിന്ന് മാത്രമല്ല ഇത് പ്രധാനം സേവന ഉപഭോക്തൃ കാഴ്ചപ്പാടിനും ഇത് പ്രധാനമാണ് ഉപഭോക്തൃ കാഴ്ചപ്പാടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ കുറഞ്ഞ വിഭവ ചെലവിൽ തന്റെ വിഭവങ്ങളുടെ വിനിയോഗം പരമാവധി വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ലാഭം പരമാവധി വർദ്ധിപ്പിക്കാൻ ദാതാവ് ആഗ്രഹിക്കുന്നു ഒരു എസ്എൽഎയ്ക്ക് ഒരു പ്രത്യേക സേവനമോ പിന്തുണയോ ലഭിക്കാൻ ആഗ്രഹിക്കുന്നു അതിനാൽ SLA സാധുവല്ല എന്നിരുന്നാലും ഈ മുഴുവൻ റിസോഴ്സ് മാനേജ്മെൻറും ഇതിന് പ്രധാന പങ്ക് വഹിക്കുന്നു നമ്മൾ പറയുന്നത് ഈ ക്ലൌഡ് കമ്പ്യൂട്ടിംഗ് മാതൃകയുടെ വിജയം എന്നതാണ് ഈ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ചില വശങ്ങൾ പരിശോധിക്കാൻ ആണ് ഇന്ന് നമ്മൾ ശ്രമിക്കുന്നത് ഒപ്പം ഒരു റിവ്യൂ പേപ്പർ ചെയ്യുന്നുവെന്ന് അവകാശപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ ഇവ ഒരു പ്രത്യേക ക്ലൌഡ് കമ്പ്യൂട്ടിംഗ് പരിസ്ഥിതി അല്ലെങ്കിൽ ക്ലൌഡ് കമ്പ്യൂട്ടിംഗ് പ്ലാറ്റ്ഫോം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതിനാൽ ശ്രദ്ധിക്കുക കുറച്ച് സ്ലൈഡുകൾ മറ്റൊന്നിൽ നിന്ന് എടുത്തതാണ് വേഗത്തിൽ റീക്യാപ്പ് ചെയ്യാമെന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട് ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെ ഉപയോക്താവിന് 2 വിഭാഗങ്ങളുണ്ട് ഫിസിക്കൽ റിസോഴ്സ് ലോജിക്കൽ റിസോഴ്സ് റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഈ നിർവചനത്തിലൂടെ നമ്മൾ കടന്നുപോയി ഇത് കഴിവുകളെ നിയന്ത്രിക്കാൻ ക്ലൌഡ് റിസോഴ്സുകളും സേവനങ്ങളും ഉപയോഗിക്കുന്ന പ്രവർത്തനത്തെ നൽകുന്നു മറ്റ് എന്റിറ്റി ഉപയോക്താക്കളുടെ ആപ്ലിക്കേഷനുകൾക്ക് കാര്യക്ഷമമായി ലഭ്യമാക്കുകയും ചെയ്യുന്നു ഇപ്പോൾ നമ്മൾ ഈ റിസോഴ്സ് മാനേജ്മെന്റ് മെക്കാനിസം അടിസ്ഥാനമായി ആണ് ഇത്തരത്തിലുള്ള ചില ടെക്നിക്കുകൾ വ്യത്യസ്ത തരം സേവനങ്ങളിൽ ബാധകമാണ് അതേസമയം ചില കാര്യങ്ങൾ ഐഎഎഎസിന് കൂടുതൽ നല്ലതാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് അതിനെക്കുറിച്ച് കൂടുതലാണ് IaaS തരം റിസോഴ്സ് മാനേജ്മെന്റിന്റെ വ്യത്യസ്ത സമീപനങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഒരു സേവനമെന്ന നിലയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഏറ്റവും ജനപ്രീതിയുള്ളതായി കണക്കാക്കപ്പെടുന്നു അല്ലെങ്കിൽ ഈ വ്യത്യസ്ത തരം സേവനങ്ങളിൽ ഏറ്റവും പ്രചാരമുള്ള ക്ലൌഡ് സേവനമായി കാണുന്നു IaaS ൽ ക്ലൌഡ് ദാതാക്കൾ കമ്പ്യൂട്ടർ ഉൾപ്പെടുന്ന റിസോഴ്സ്കൾ വിർച്വൽ മെഷീനുകളായി വാഗ്ദാനം ചെയ്യുന്നു അസംസ്കൃത സംഭരണ ഫയർവാളുകൾ ലോഡ് ബാലൻസർ നെറ്റ്വർക്ക് ഉപകരണങ്ങൾ എന്നിവയെല്ലാം ഇൻഫ്രാസ്ട്രക്ചറിനെ റിസോഴ്സായി സംസാരിക്കുമ്പോൾ നമ്മൾ പരിഗണിക്കുന്ന വ്യത്യസ്ത വിഭാഗങ്ങളാണിവ ഐഎഎഎസിലെ പ്രധാന വെല്ലുവിളികളിൽ ഒന്ന് റിസോഴ്സ് മാനേജ്മെന്റാണ് റിസോഴ്സ് എങ്ങനെ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യാം എന്നത് ക്ലൌഡിന്റെ മൊത്തത്തിലുള്ള പ്രവർത്തനത്തിന് ഊർജ്ജം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു ചുരുങ്ങിയ ഊർജ്ജ ഉപഭോഗം ഒരു പ്രത്യേക തലത്തിൽ എനിക്ക് എങ്ങനെ സേവനം നൽകാൻ കഴിയും എന്നത് പ്രാധാന്യം അർഹിക്കുന്നു നമ്മൾ IaaS നെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് വളരെ പ്രധാനമാണ് റിസോഴ്സ് മാനേജ്മെന്റിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ദാതാവിന്റെ കാഴ്ചപ്പാടിൽ നിന്ന് ലാഭം വർദ്ധിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു വിഭവങ്ങളുടെ വിനിയോഗവും ഊർജ്ജത്തിന്റെ കുറഞ്ഞ ആവശ്യകതയും പരമാവധി വർദ്ധിപ്പിക്കുക എന്നത് മറുവശത്ത് നമ്മൾക്ക് ഉണ്ട് ഈ സേവനങ്ങളുടെ ഗുണനിലവാരവും എസ്എൽഎയും നമ്മൾ തൃപ്തിപ്പെടുത്തേണ്ടതുണ്ട് പകരം ഇന്ന് നമ്മൾ ചർച്ചചെയ്യുമ്പോൾ നിരവധി അളവുകൾ കാണാനാകും പക്ഷേ റിസോഴ്സ് മാനേജ്മെൻറ് വശങ്ങൾ പരിശോധിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ഘടകങ്ങളാണിത് നമ്മൾ മിക്കവാറും സർവേ പേപ്പറിൽ നിന്ന് ഇൻപുട്ടുകൾ എടുക്കുന്നു അവിടെ ലിങ്ക് നൽകിയിട്ടുള്ള കാര്യങ്ങൾ ഡൌൺലോഡ് ചെയ്യാനും നോക്കാനും സ്വാതന്ത്ര്യമുണ്ട് കൂടാതെ കൂടുതൽ ഗവേഷണങ്ങളിൽ താൽപ്പര്യമുള്ള മറ്റ് അനുബന്ധ പേപ്പറുകൾ നിങ്ങൾക്ക് ലഭിക്കും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള റിസോഴ്സ് മാനേജ്മെന്റിനെക്കുറിച്ചുള്ള കൂടുതൽ പഠനം ഇത് സ്വാഗതം ചെയ്യുന്നു നമ്മൾ റിസോഴ്സ് മാനേജ്മെന്റിനെ വിശാലമായ ലക്ഷ്യങ്ങളിൽ നോക്കുകയാണെങ്കിൽ ക്ലൌഡിന്റെ സ്കെയിലബിലിറ്റി ഒരു പ്രത്യേക പരിതസ്ഥിതിയായി നിലനിൽക്കണോ വേണ്ടയോ എന്നത് പോലെ മൊത്തത്തിലുള്ള ചെലവ് ഫലപ്രാപ്തി എന്നത് ചെലവ് കുറഞ്ഞതായിരിക്കണം ഇത് ദാതാവിനും ഉപഭോക്താവിനും സാമ്പത്തികമായി പ്രയോജനകരമായിരിക്കണം ദാതാവ് കൂടുതൽ പണം ചെലവഴിക്കാൻ പാടില്ല മാത്രമല്ല ഉപയോക്താക്കൾ അതിനായി കൂടുതൽ സബ്സ്ക്രിപ്ഷൻ ആയിരിക്കണം അത് വളരെ ബുദ്ധിമുട്ടുള്ള ഇന്റർഫേസ് ആയിരിക്കരുത് അല്ലെങ്കിൽ എനിക്ക് പറയാൻ കഴിയും നമ്മൾക്ക് ഒരു എളുപ്പ ഉപയോഗം ഉണ്ടായിരിക്കണം അതിനാൽ അത്തരം പരിസ്ഥിതി ഉപയോഗിക്കുന്നത് എളുപ്പമാണ് ഇവയാണ് നമ്മളുടെ വിശാലമായ ലക്ഷ്യം അല്ലെങ്കിൽ ക്ലൌഡ് സർവീസ് പ്രൊവിഷനിംഗിന്റെ ഒരു ലക്ഷ്യം എനിക്ക് വിട്ടുവീഴ്ച ചെയ്യാതെ വിശാലമായി പറയാൻ കഴിയും സിപിയു മാനേജ്മെന്റ് മെമ്മറി മാനേജ്മെന്റ് സ്റ്റോറേജ് മാനേജ്മെന്റ് വർക്ക്സ്റ്റേഷൻ നെറ്റ്വർക്ക് എലമെന്റ് സെൻസർ ആക്യുവേറ്ററുകൾ ഉണ്ട് കുറഞ്ഞ മെമ്മറിയിലും തരത്തിലും നിങ്ങൾക്ക് വളരെ ഉയർന്ന പവർ സിപിയു ഉണ്ടാകാൻ കഴിയില്ല അപ്പോൾ പ്രകടനം മികച്ചതായിരിക്കില്ല പ്രധാനപ്പെട്ട റിസോഴ്സ്സ് തമ്മിലുള്ള ഏകോപനം പ്രധാനമാണെങ്കിൽ നമ്മൾ റിസോഴ്സ്സ് മാനേജുചെയ്യുമ്പോൾ അവ സംരക്ഷിക്കപ്പെടുന്നുവെന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് സമാനമായ നെറ്റ്വർക്ക് ഘടകത്തിന്റെ മറ്റ് ഘടകങ്ങളെയും മറ്റ് കാര്യങ്ങളെയും അവഗണിക്കാതെ എനിക്ക് സംഭരണത്തിന്റെ ഒപ്റ്റിമൽ മാനേജുമെന്റ് നടത്താൻ കഴിയില്ല എന്റെ നെറ്റ്വർക്ക് പ്രവേശനക്ഷമത ഇപ്പോഴും മന്ദഗതിയിലാണ് അപ്പോൾ ആ ഉദ്ദേശ്യം പരിഹരിക്കപ്പെടുന്നില്ല അത് പരിശോധിക്കേണ്ടതുണ്ട്

മറ്റ് ലോജിക്കൽ റിസോഴ്സ്സ് വിവരങ്ങളോ സ്വകാര്യത സംരക്ഷിക്കുന്നവയോ അവയുടെ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസ് അല്ലെങ്കിൽ API എത്ര കാലതാമസം വരുത്തുന്നു എന്നതും അതിനാൽ പുതിയ തരം API യിൽ വീണ്ടും ചെയ്യേണ്ടതുണ്ടോ എന്നതാണ് വിവിധ പ്രോട്ടോക്കോളുകൾ നമ്മൾ പറയുന്നത് സോഫ്റ്റ് റിസോഴ്സുകൾ സോഫ്റ്റ് റിസോഴ്സുകളും പരസ്പരം വേർതിരിക്കപ്പെടുന്നില്ല അവ പരസ്പരം കൂടിച്ചേർന്നതാണ് അവ സമഗ്രമായ രീതിയിൽ പരിശോധിക്കേണ്ടതുണ്ട് നിങ്ങൾ നോക്കുന്ന വ്യത്യസ്ത വെല്ലുവിളികൾ അല്ലെങ്കിൽ വിശാലമായ ലക്ഷ്യങ്ങൾ ഇവയാണ് ഗവേഷകർ പിന്തുടരുന്ന വ്യത്യസ്ത തരം സമീപനങ്ങളുണ്ട് അല്ലെങ്കിൽ റിസോഴ്സ് മാനേജ്മെന്റ് വശങ്ങളുണ്ട് അല്ലെങ്കിൽ റിസോഴ്സ് പ്രൊവിഷനിംഗ് എന്താണ് എന്ന് നമ്മൾ കാണും അതിനാൽ ഞാൻ റിസോഴ്സ് ആവശ്യകത അനുസരിച്ചുള്ള മാപ്പിംഗ് അനുവദിക്കണം എനിക്ക് റിസോഴ്സ് ആവശ്യകതകൾ ശരിയായി മാപ്പ് ചെയ്യാൻ കഴിയുമോ അല്ലെങ്കിൽ ചിലപ്പോൾ റിസോഴ്സ് ആവശ്യകതയുടെ മുൻഗണന മാപ്പിംഗ് ചെയ്യാൻ കഴിയുമോ എന്നത് നോക്കാം ശരിയാണ് ഇത്തരത്തിലുള്ള റിസോഴ്സ് ആവശ്യകത നടക്കുന്നുണ്ടെന്ന് നിർബന്ധിക്കുന്നത് പോലെ റിസോഴ്സ് ആവശ്യകത പോലെ തന്നെ അത് നൽകുന്നു വ്യത്യസ്ത സമയ സ്കെയിലിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്തമാണ് ശരിയായ ദിവസത്തിലെ വ്യത്യസ്ത സമയദൈർഘ്യം വർഷത്തിലെ സമയ കാലയളവ് വ്യത്യസ്തമായിരിക്കും ഒരുപക്ഷേ വർഷങ്ങളായി കാര്യങ്ങൾ വ്യത്യസ്തവും മറ്റും റിസോഴ്സ് അഡാപ്റ്റേഷന് ഉണ്ട് റിസോഴ്സ് ഡിസ്കവറിംഗ് എങ്ങനെ കണ്ടെത്താം എന്നതുപോലുള്ള ഒരു മെക്കാനിസം ഉണ്ടായിരിക്കണം ആ റിസോഴ്സുകളും വസ്തുക്കളുടെ തരവും എവിടെ കണ്ടെത്തും ഒരു ഉപയോക്താവെന്ന നിലയിൽ എങ്ങനെ വിഭവങ്ങൾ തേടാം വീണ്ടും ആ ഉപയോഗം ആവർത്തിക്കുന്നു എല്ലായ്പ്പോഴും മനുഷ്യ ഉപയോക്താവായിരിക്കില്ല ഇത് മറ്റൊരു പ്രക്രിയയായിരിക്കാം ഒപ്റ്റിമലിന് എങ്ങനെ അനുവദിക്കാമെന്നും അങ്ങനെ അങ്ങനെ ഇത് ഒരു പ്രധാന വശമാണ് ബുക്കർ ബ്രോക്കറേജ് കണക്കാക്കുന്ന തരത്തിലുള്ള റിസോഴ്സ് ആവശ്യകതയുണ്ടാകുമെന്ന് കണക്കാക്കുന്നു ഞാൻ ഒരു സാസ് അല്ലെങ്കിൽ പാസ് ലേബൽ നോക്കുന്നത് പോലുള്ള ഉയർന്ന തലത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇവ ചിലപ്പോൾ പ്രധാനമാണ് ഏത് തരത്തിലുള്ള ബാക്ക്ബോൺ റിസോഴ്സുകൾ ആവശ്യമാണെന്ന് കണക്കാക്കുക റിസോഴ്സ് മോഡലിംഗ് എന്ന് വിളിക്കുന്ന ഒരു കാര്യമുണ്ട് ഇപ്പോഴത്തെ ലോഡും കാര്യങ്ങളുടെ തരവും കണക്കിലെടുത്ത് എസ്റ്റിമേറ്റ് പരിഗണിക്കുന്നതിനായി റിസോഴ്സുകളെ എങ്ങനെ മാതൃകയാക്കാം എന്ന് നോക്കാം ഇവ വ്യത്യസ്ത വശങ്ങളാണ് ഈ ഇന്റൽ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സ്വതന്ത്ര വശങ്ങളല്ലെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ ഇവ വ്യത്യസ്ത വശങ്ങളാണ് മാത്രമല്ല നിങ്ങൾ അവിടെയുള്ള ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ആവശ്യകതയെ അടിസ്ഥാനമാക്കി ഊന്നൽ വ്യത്യാസപ്പെടാം ചില സന്ദർഭങ്ങളിൽ ചില വശങ്ങൾക്ക് ഉയർന്ന മുൻഗണന നൽകാം എന്നിട്ടും ഇവ ഒറ്റപ്പെട്ട ഘടകങ്ങളല്ലെങ്കിലും അവ തമ്മിൽ കാര്യങ്ങൾ തമ്മിൽ ബന്ധമുണ്ട് വ്യത്യസ്ത വശങ്ങൾ എന്തൊക്കെയാണ് അവ അർത്ഥമാക്കുന്നത് എന്താണെന്ന് നമ്മൾ കാണാൻ ശ്രമിക്കുന്നു സ്ഥിരമായ ഉപഭോക്താക്കൾക്ക് റിസോഴ്സ്സ് നൽകിയ സേവനത്തിന്റെ ഒരു സ്ഥാനം റിസോഴ്സ് പ്രൊവിഷൻ ചെയ്യുന്നത് ആണ് ഒരു വശം ഉപഭോക്താവ് ഒരു വ്യക്തിയോ പ്രക്രിയയോ ആകാം റിസോഴ്സ് അലോക്കേഷൻ എന്നത് ആളുകളുടെ അല്ലെങ്കിൽ പ്രോഗ്രാമുകളുടെ കമ്പ്യൂട്ടിംഗ് ഗ്രൂപ്പുകൾക്കിടയിൽ സാമ്പത്തികമായി വിഭവ വിതരണത്തെ പ്രതിനിധീകരിക്കുന്നു അല്ലെങ്കിൽ ഉപയോക്താവിന്റെ ആവശ്യകത നിറവേറ്റുന്നതിനായി റിസോഴ്സ്സ് ചലനാത്മകമായി ക്രമീകരിക്കുന്നതിനുള്ള റിസോഴ്സ് അഡാപ്റ്റേഷൻ കഴിവ് അല്ലെങ്കിൽ ആ സിസ്റ്റത്തിന്റെ ശേഷി പ്രോസസ്സ് ചെയ്യുന്നു എന്നതാണ് മൊത്തത്തിൽ ഉപയോക്തൃ ആവശ്യകതയെ അടിസ്ഥാനമാക്കി സിസ്റ്റം സ്വയം ക്രമീകരിക്കുന്നു ഈ റിസോഴ്സ് എങ്ങനെ മികച്ച രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും എസ്എൽഎയും മറ്റ് സേവനങ്ങളുടെ ഗുണനിലവാരവും കാര്യങ്ങളും വിട്ടുവീഴ്ച ചെയ്യാതെ തന്നെ എന്ന് നോക്കാം ഉപയോക്താക്കൾക്ക് ആവശ്യമായ റിസോഴ്സും ദാതാക്കളിൽ ലഭ്യമായ റിസോഴ്സും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്ന റിസോഴ്സ് മാപ്പിംഗ് നമ്മൾക്ക് ഉണ്ട് ലഭ്യമായ റിസോഴ്സ് അടിസ്ഥാനമാക്കി റിസോഴ്സ് മോഡലിംഗ് എങ്ങനെ മാപ്പ് ചെയ്യണം എന്നതിന്റെ ആവശ്യകത വിശദമായ വിവര പ്രക്ഷേപണ നെറ്റ്വർക്ക് ഘടക റിസോഴ്സ് നെറ്റ്വർക്കിൽ പങ്കെടുക്കുന്ന എന്റിറ്റികൾ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതായത് റിസോഴ്സ് മാനേജ്മെന്റുകളുടെ ആട്രിബ്യൂട്ടുകൾ അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു അതിനെ അടിസ്ഥാനമാക്കി എനിക്ക് ഇത് മാതൃകയാക്കേണ്ടതുണ്ട് ഈ മാറ്റം എങ്ങനെ തുടരും എന്ന് നോക്കാം റിസോഴ്സ് കണക്കാക്കൽ സാധാരണയായി ചില ചിന്തകളോ കണക്കുകൂട്ടലുകളോ ഉപയോഗിച്ച് ആപ്ലിക്കേഷന് ആവശ്യമായ യഥാർത്ഥ റിസോഴ്സ് എങ്ങനെ സൂക്ഷ്മമായി ഊഹിക്കാൻ കഴിയും ചിലതിനെ മുൻകൂട്ടി ചെയ്യാൻ കഴിയും ആപ്ലിക്കേഷനെക്കുറിച്ച് കുറച്ച് മുൻകൂട്ടി അറിവുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷൻ പോലുള്ള ചില മെറ്റാ വിവരങ്ങൾ ഉണ്ടായിരിക്കാം ഇതിന് വളരെയധികം മെമ്മറി ആവശ്യമാണ് വളരെയധികം സ്ഥലം മാറ്റി വെയ്ക്കണം വളരെയധികം ത്രെഡുകളും കാര്യങ്ങളുടെ തരവും അടിസ്ഥാനമാക്കി ഞാൻ റിസോഴ്സ് കണ്ടെത്തലും തിരഞ്ഞെടുക്കലും മാറ്റിസ്ഥാപിക്കുന്നു ജോലി സമർപ്പിക്കലിനായി ലഭ്യമായ പ്രാമാണീകരിച്ച വിഭവങ്ങളുടെ ലിസ്റ്റ് തിരിച്ചറിയുന്നതിനെക്കുറിച്ച് നമ്മൾ ചർച്ചചെയ്യുമ്പോൾ അവയിൽ ഏറ്റവും മികച്ചത് തിരഞ്ഞെടുക്കുക എന്നത് പ്രധാനമാണ് നിങ്ങൾക്ക് ഒന്നിലധികം റിസോഴ്സ് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ റിസോഴ്സ്കളുള്ള ഒന്നിലധികം ദാതാക്കൾ ലഭ്യമാണ് ഏതൊക്കെ റിസോഴ്സ്കളാണെന്നും അനുയോജ്യമായ കാര്യമെന്താണെന്നും കണ്ടെത്തുകയും ഏറ്റവും ഒപ്റ്റിമലും വിഭവ ബ്രോക്കറിംഗും അടിസ്ഥാനമാക്കി അനുവദിക്കുകയും ചെയ്യുന്നു ഒരു ഏജന്റ് റിസോഴ്സ്കളുടെ ചർച്ചയിൽ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കുന്നതിന് ആവശ്യമായ റിസോഴ്സ് ശരിയായ സമയത്ത് ലഭ്യമാണെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട് ഒരു ഉപയോക്താവെന്ന നിലയിൽ ഒരു ആവശ്യകത ഉണ്ട് ഒരു ഉപയോക്തൃ പ്രോസസ്സ് എന്ന നിലയിയിലും ഒരു ആവശ്യകതയുണ്ട് തുടർന്ന് ലഭ്യമായവ എന്താണെന്ന് ഏജന്റുമായി ചർച്ച ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു കാര്യങ്ങൾ എങ്ങനെ ലഭ്യമാകും എന്റെ ലക്ഷ്യം റിസോഴ്സ് തിരിച്ചുള്ള ലക്ഷ്യമായിരിക്കാം ചിലപ്പോൾ വിലനിർണ്ണയ ലക്ഷ്യത്തിലും ആകാം ഈ ചെലവും ഞാൻ തിരഞ്ഞെടുക്കേണ്ട കാര്യങ്ങളും ബന്ധപ്പെട്ടിരിക്കുന്നു മുഴുവൻ കാര്യങ്ങളും ഒപ്റ്റിമൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അതിനായി എനിക്ക് ഒരു ബ്രോക്കറിംഗ് സേവനം ആവശ്യമാണ് റിസോഴ്സ് ഷെഡ്യൂളിംഗ് വേണം ഇത് ഷെഡ്യൂളിംഗ് ഇവന്റുകളുടെയും ഉറവിടങ്ങളുടെയും ഒരു ടൈംടേബിളാണ് നമ്മളുടെ റിസോഴ്സ് ചില സമയങ്ങളിൽ ലഭ്യമാണെന്നും ആ സമയങ്ങളിൽ ഇവന്റുകൾ ആസൂത്രണം ചെയ്യപ്പെടുന്നുവെന്നും പറയുക ഓപ്പറേഷൻ നടപടിക്രമമുള്ള റിസോഴ്സ്കളുണ്ട് ഒരു തരത്തിലുള്ള ടൈംടേബിൾ ആവശ്യമാണ് ഈ റിസോഴ്സ്സ് ബന്ധപ്പെടുത്താൻ എനിക്ക് ഇതിൽ ധാരാളം ദൈർഘ്യം ഉണ്ടായിരിക്കാം ചില മുൻഗാമിയായ റിസോഴ്സ് അനുവദിച്ചതും മറ്റും ആ ആരംഭവും കാര്യങ്ങളും നിർണ്ണയിക്കാൻ വ്യത്യസ്ത ഘടകങ്ങളുണ്ടാകാം നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതുപോലുള്ള ചില സമീപനങ്ങളോ ചില വ്യത്യസ്ത വശങ്ങളോ നോക്കിയാൽ റിസോഴ്സ് പ്രൊവിഷനിംഗ് റിസോഴ്സ് അലോക്കേഷൻ എന്നീ സമീപനങ്ങളാണ് പിന്തുടരുന്നത് അല്ലെങ്കിൽ ഗവേഷകർ ഏതുതരം കാര്യങ്ങളിൽ പിന്തുടരുന്നുവെന്ന് കാണാൻ ശ്രമിക്കുക ആദ്യത്തേത് പോലുള്ള റിസോഴ്സ് പ്രൊവിഷനിംഗ് സമീപനങ്ങളിൽ നമുക്ക് നോക്കാം ഗെയിം സിദ്ധാന്തത്തിനായുള്ള സമീപനമാണ് നമ്മൾക്കുള്ളത് റിസോഴ്സ്സ്ന്റെ ഒപ്റ്റിമൽ ഉപയോഗങ്ങൾ കണ്ടെത്തുന്നതിന് ഒരുതരം ഗെയിം സൈദ്ധാന്തിക സമീപനം ഉപയോഗിച്ച് റിസോഴ്സ്സ്ളുടെ വൈവിധ്യമാർന്ന വിതരണം ക്ലൌഡ് ഉപയോക്താക്കളുടെ യുക്തിസഹമായ കൈമാറ്റം സമ്പൂർണ്ണ പൊതുവായ വിവരങ്ങളിലും ചലനാത്മകമായ തുടർച്ചയായ വിഹിതം എന്നിങ്ങനെയുള്ള നിരവധി മാനദണ്ഡങ്ങൾ പരിഗണിച്ച് ഐഎഎഎസ് വിഭവങ്ങളുടെ റൺടൈം മാനേജുമെന്റും അലോക്കേഷനും എന്തുചെയ്യുന്നു എന്ന് നോക്കാം റിസോഴ്സ്സ് വൈവിധ്യമാർന്ന ദൈർഘ്യം അല്ലെങ്കിൽ ക്ലൌഡ് ഉപയോക്താക്കളുടെ പാറ്റേൺ കാണുന്നതിന് ഒരു ഗെയിം സൈദ്ധാന്തിക സമീപനം ലഭിക്കാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള തരം എന്നിങ്ങനെയുള്ള വ്യത്യസ്ത ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഒരു ഗെയിമായി നമുക്ക് കാണാൻ കഴിയും അവിടെ ഒരു വശത്തുള്ള ഉപഭോക്താവ് റിസോഴ്സ്സ് തിരയുന്നവരാണ് മറുവശത്തു റിസോഴ്സ്സ് നൽകുന്ന ദാതാക്കളുണ്ട് റിസോഴ്സ്സ് അനുവദിക്കുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗം കണ്ടെത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു ഗെയിം സമീപനം ഉപയോഗിച്ച് നാഷ് സന്തുലിതാവസ്ഥ അടിസ്ഥാനമാക്കിയുള്ളതാണ് അത് അവിടെ ഗവേഷണങ്ങളുണ്ട് അല്ലെങ്കിൽ ആളുകൾ അവിടെ പിന്തുടരുന്ന രീതികളും സമീപനങ്ങളും ഉണ്ട് നമ്മൾക്ക് നെറ്റ്വർക്ക് ക്യൂയിംഗ് മോഡൽ പ്രതിനിധീകരിക്കുന്നു വ്യത്യസ്തമായ പ്രകടന സവിശേഷതകളും സെഷൻ ഉപയോഗിക്കുന്നു അത് ചെയ്യാൻ ശ്രമിക്കുന്നത് ഇവ സ്വപ്രേരിതമായി നിർണ്ണയിക്കാൻ ക്ലസ്റ്റർ കെ മീഡിയ ക്ലസ്റ്ററിൽ വന്നത് ഉപയോഗിച്ച് ക്ലസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുന്നു വ്യത്യസ്ത ഉപയോക്താവിൻറെ വർക്ക് ലോഡ് എങ്ങനെ പ്രൊവിഷൻ ചെയ്യാനാകുമെന്ന് പ്രവചിക്കുക പ്രധാന ദൌത്യമാണ് വിഎം പ്രൊവിഷനിംഗ് പോലുള്ള മറ്റ് റിസോഴ്സ് പ്രൊവിഷനിംഗ് ഉണ്ട് സെൻ ഹൈപ്പർവൈസറിന് നൽകുന്നു

അഡാപ്റ്റീവ് റിസോഴ്സ് പ്രൊവിഷനിംഗ് രീതികൾ കൈകാര്യം ചെയ്യൽ പ്രക്രിയ ഉപയോക്തൃ എസ്എൽഎകളെ സ്വപ്രേരിതമായി കണ്ടുമുട്ടുന്നതിനുള്ള ചലനാത്മക പ്രൊവിഷനിംഗ് എന്ന് വിളിക്കുന്നു നിർദ്ദിഷ്ട ഉപയോക്താക്കളെയോ കൃത്യത ലക്ഷ്യങ്ങളെയോ നിറവേറ്റുന്നതിനായി പാരാമീറ്ററുകൾ സ്വീകരിക്കുന്ന അഡാപ്റ്റീവ് പാരാമീറ്ററുകൾ സ്വീകരിക്കുന്ന ഒരു ഓട്ടോമാറ്റിക് ഫ്രെയിംവർക്ക് ആണിത് സേവനങ്ങളുടെ ഗുണനിലവാരത്തെയോ എസ്എൽഎയുടെ തരത്തെയോ അടിസ്ഥാനമാക്കി റിക്രൂട്ട് റിസോഴ്സുകൾ പ്രൊവിഷൻ ചെയ്യുന്നതിൽ ഇത് തുടരുന്നു ഇതിന് പിന്തുണ നൽകേണ്ടതുണ്ട് കൂടാതെ ഒപ്റ്റിമൈസ് ചെയ്യാൻ ശ്രമിക്കുന്നവരെ പരിഗണിച്ച് ഡിമാൻഡും വില അനിശ്ചിതത്വവും നോക്കാൻ ശ്രമിക്കുന്ന ഒപ്റ്റിമൽ ക്ലൌഡ് പ്രൊവിഷനിംഗ് സംവിധാനങ്ങളുണ്ട് ഇത്തരത്തിലുള്ള റിസോഴ്സ് പ്രൊവിഷനിംഗ് സംവിധാനങ്ങൾക്കായി നിരവധി സമീപനങ്ങളുണ്ടെന്ന് നമ്മൾ കാണുന്നു റിസോഴ്സ് അലോക്കേഷൻ പ്രാഥമികമായി റിസോഴ്സ് വ്യൂ വെർച്വലൈസേഷനായി തിരയുന്നു മൊബൈൽ ഉപകരണങ്ങൾക്കായി പ്രത്യേകമായി ലഭ്യമായ സേവന വിഭവങ്ങൾ സ്വപ്രേരിതമായി അനുവദിക്കുന്നതിന് ആണിത് ഒപ്റ്റിമൽ റിസോഴ്സസ് എനർജി അവേഴ്സർ റിസോഴ്സ് അലോക്കേഷൻ അടിസ്ഥാനമാക്കിയുള്ള വിശകലനം ചെയ്യാൻ കഴിയും അത് വ്യത്യസ്ത അളവുകൾ അല്ലെങ്കിൽ അളക്കൽ പാരാമീറ്ററുകൾ അടിസ്ഥാനമാക്കി വീണ്ടും ഡൈനാമിക് റിസോഴ്സ് അലോക്കേഷൻ രീതികൾ ഉണ്ട് റിസോഴ്സ് എങ്ങനെ അനുവദിക്കാമെന്ന കാര്യങ്ങളിൽ തത്സമയ ഡിമാൻഡ് ഉണ്ടെങ്കിൽ തൽസമയ റിസോഴ്സ് അലോക്കേഷൻ മെക്കാനിസങ്ങൾ ഉണ്ട് ചെറിയ ഇടത്തരം വലുപ്പമുള്ള IaaS ക്ലൌഡ് ദാതാക്കളെ അവരുടെ ഹാർഡ്വെയർ റിസോഴ്സ് കുറഞ്ഞ പ്രവർത്തനച്ചെലവോടെ നന്നായി രൂപകൽപ്പന ചെയ്യാൻ സഹായിക്കുന്നതിന് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് നന്നായി രൂപകൽപ്പന ചെയ്ത ഹാർഡ്വെയർ ഇൻഫ്രാസ്ട്രക്ചർ ആണ് പ്രത്യേകിച്ചും ചെറുതും ഇടത്തരവുമായ ഈ IaaS ക്ലൌഡ് ദാതാവിനെ സഹായിക്കുന്നതിന് തത്സമയം എങ്ങനെ അനുവദിക്കാമെന്നും ലഭ്യമായ വിഭവങ്ങളുടെ ചലനാത്മക ഷെഡ്യൂളിംഗും ഏകീകരണ സംവിധാനങ്ങളും മുകളിലുമുണ്ട് സിമെട്രിക് മാപ്പിംഗ് പാറ്റേൺ പോലുള്ള റിസോഴ്സ് മാപ്പിംഗിനായി വീണ്ടും നിരവധി സമീപനങ്ങളുണ്ട് അത് റിസോഴ്സ് സപ്ലൈ സിസ്റ്റങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നതിനാണ് ഇത് റിസോഴ്സിനെ മൂന്ന് പ്രധാന ഫംഗ്ഷനുകളായി വിഭജിക്കുന്നു ഉപയോക്താക്കളും ദാതാക്കളും റിസോഴ്സ് സപ്ലൈ മാനേജ്മെന്റ് കരാറുകളുമായി പൊരുത്തപ്പെടുകയും ഇടപഴകുകയും ചെയ്യുന്നു ഉപയോക്താക്കളും ദാതാക്കളും ആവശ്യകതയുമായി പൊരുത്തപ്പെടുകയും ഉപയോക്താക്കൾ സബ്സ്ക്രൈബ് റിസോഴ്സ് കണ്ടെയ്നറുകളിൽ സ്ഥാപിക്കുന്നതിന് മുമ്പായി ആ തരത്തിലുള്ള പൊരുത്തപ്പെടുത്തൽ നടത്തുകയും ചെയ്യുന്നു അത് റിസോഴ്സ് കണ്ടെയ്നർ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ ടാസ്ക്കുകൾ സ്ഥാപിക്കുകയും മാപ്പിംഗ് നടത്തുകയും ചെയ്യുന്നു അല്ലെങ്കിൽ ഫിസിക്കൽ റിസോഴ്സസ് കാര്യങ്ങളെയും കുറിച്ച് ദാതാവ് നൽകിയ റിസോഴ്സ് കണ്ടെയ്നർ ആണിത് ഇവ മറ്റൊരു തരം കണ്ടെയ്നർ അധിഷ്ഠിത സേവനങ്ങളാണ് നയിക്കുന്നത് ഈ കണ്ടെയ്നർ ക്ലാസുകളും കണ്ടെയ്നർ കാര്യങ്ങളും വലിയ രീതിയിൽ വരുന്ന മറ്റൊരു സാങ്കേതികവിദ്യ ആണ് ഉപയോക്താവിന് റിസോഴ്സ് കോണ്ടിനെന്റിൽ അവരുടെ ടാസ്ക്കുകൾ സ്ഥാപിക്കാൻ കഴിയും അല്ലെങ്കിൽ ദാതാക്കൾക്ക് ഫിസിക്കൽ റിസോഴ്സസ് വിതരണം ചെയ്ത റിസോഴ്സ് കണ്ടെയ്നർ സ്ഥാപിക്കാൻ കഴിയും ഇത് ലോഡ് അവേർ ഉപയോഗിച്ച് വിഎം ഇമേജ് മാനേജുമെന്റ് എത്ര ലളിതമായി പര്യവേക്ഷണം ചെയ്യുകയും ഇമേജ് തയ്യാറാക്കൽ കുറയ്ക്കുകയും ചെയ്യുക ആണിത് ഇത് ലോഡിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഒരു നിരക്കിന് മുകളിലുള്ള വിന്യാസം കുറയ്ക്കുന്നതിനും വിഭവങ്ങൾ കാര്യക്ഷമമായി ഉപയോഗിക്കുന്നതിനും ഇത് ഒരു ലോഡ് അവേർ മാപ്പിംഗ് ചെയ്യുന്നു ലഭ്യമായ ലോഡിനെ അടിസ്ഥാനമാക്കി ലോഡ് ലഭ്യത പ്രാദേശിക ആവർത്തന തിരയൽ അടിസ്ഥാനമാക്കിയുള്ള അഭ്യർത്ഥന പാർട്ടീഷനിംഗിനുള്ള സാങ്കേതികതയാണ് പാർട്ടീഷൻ അഭ്യർത്ഥന ഇവിടെ ചെലവ് കാര്യക്ഷമവും ഓൺലൈൻ വിഭജനവും സുഗമമാക്കുന്നതിന് ആവർത്തന പ്രാദേശിക തിരയലിനെ അടിസ്ഥാനമാക്കി പിന്തുടരുകയാണോ എന്നത് യോഗ്യതയുള്ള ക്ലൌഡ് സേവന ദാതാക്കളിൽ നിന്നുള്ള അഭ്യർത്ഥനയാണ് അതിനാൽ ഉപയോക്താവ് ഒരു ഉപയോക്തൃ അഭ്യർത്ഥനകൾക്കായി അഭ്യർത്ഥിക്കുന്നുണ്ടാകാം പാർട്ടീഷൻ ചെയ്യാനുള്ള ഒരു വഴിയുണ്ടെങ്കിൽ അടിസ്ഥാനപരമായി ചെറിയ ഭാഗങ്ങളായി വിഭജിക്കാം ഇന്റലിജന്റ് പാർട്ടീഷനിംഗ് അൽഗോരിതം ചെയ്യാനും വ്യത്യസ്ത ക്ലൌഡ് സേവന ദാതാക്കളെ വ്യത്യസ്ത സിഎസ്പികളിലേക്ക് കാര്യങ്ങൾ അനുവദിക്കാനും കഴിയും അതിനർത്ഥം വലിയ അഭ്യർത്ഥനകളെ ചെറുതായി വിഭജിച്ച് നോക്കാൻ കഴിയും വിർച്വൽ ആപ്ലിക്കേഷനുകളുടെ സമന്വയത്തിൽ വിതരണം ചെയ്യുന്നത് പോലുള്ള മറ്റ് സമീപനങ്ങളുണ്ട് വെർച്വൽ ആപ്ലിക്കേഷനുകൾ സമന്വയിപ്പിക്കുന്ന പേര് അല്ലെങ്കിൽ ഒരു സബ്സ്റ്റേറ്റ് നെറ്റ്വർക്കിന്റെ വെർച്വൽ നെറ്റ്വർക്ക് മാപ്പുചെയ്യുന്നു എനിക്ക് ഒരു അടിവരയിടുന്ന നെറ്റ്വർക്ക് ഉണ്ട് തുടർന്ന് ഉപയോക്താവിന് ഈ സബ്സ്ട്രേറ്റ് നെറ്റ്വർക്കിലേക്ക് പ്രധാനമായ ഒരു വെർച്വൽ നെറ്റ്വർക്ക് മാപ്പ് ചെയ്യുന്നതെങ്ങനെയെന്നതുപോലുള്ള ഒരു സബ്സ്ട്രേറ്റ് നെറ്റ്വർക്ക് മാപ്പ് ചെയ്യുന്നു ഇത് വീണ്ടും നെറ്റ്വർക്ക് കാഴ്ചയിൽ നിന്നുള്ള ഒരു റിസോഴ്സ് മാപ്പിംഗ് ആണ് നെറ്റ്വർക്കിൽ നിന്ന് ഉപയോക്താവിൽ നിന്ന് ഒരു നിബന്ധനയുണ്ട് അത് കാര്യങ്ങളിൽ മാപ്പ് ചെയ്യുക പഠന മാർഗ്ഗനിർദ്ദേശ നിയന്ത്രണ നയം ശക്തിപ്പെടുത്തുക പോലുള്ള നിരവധി അഡാപ്റ്റേഷൻ റിസോഴ്സ് അഡാപ്റ്റേഷനായി ഉപയോഗിക്കാൻ കഴിയുന്ന വെർച്വൽ നെറ്റ്വർക്കുകൾ ഡിഎൻഎ അടിസ്ഥാനമാക്കിയുള്ള ലോഡ് ബാലൻസിംഗ് പോലുള്ള നിരവധി കാര്യങ്ങളുണ്ട് ഇത്തരത്തിലുള്ള ലോഡ് റിസോഴ്സ് അഡാപ്റ്റേഷനായി നമുക്ക് ഹൈബ്രിഡ് സമീപനങ്ങൾ നടത്താം റിസോഴ്സ് പ്രൊവിഷനിംഗ് അലോക്കേഷൻ പോലെ ഇവിടെ കണ്ടതുപോലുള്ള നിരവധി സാങ്കേതിക വിദ്യകൾ ചിലത് നമ്മൾ ചർച്ചചെയ്തു റിസോഴ്സ് ആവശ്യകത മാപ്പിംഗ് അഡാപ്റ്റേഷൻ തുടങ്ങിയവ ഒടുവിൽ അവയുടെ പ്രകടനം എങ്ങനെ വിലയിരുത്താം എന്ന് നമ്മൾ നോക്കുന്നു നമ്മൾ തിരയുന്നത് ചില മാട്രിക്സാണ് എനിക്ക് മെക്കാനിസങ്ങൾ ഉള്ളതിനാൽ വിന്യാസത്തിന്റെ എളുപ്പം പോലുള്ള ചില മെട്രിക്കുകളെ അടിസ്ഥാനമാക്കി ആ സമീപനങ്ങളെല്ലാം വിഭജിക്കേണ്ടതുണ്ട് കൂടാതെ സേവനങ്ങളുടെ വിന്യാസ നിലവാരത്തിൽ വിട്ടുവീഴ്ച ചെയ്യരുത് കാലതാമസം ഉണ്ടാകരുത് അല്ലെങ്കിൽ കാലതാമസം പരിധിക്കുള്ളിലായിരിക്കണം കൂടാതെ ഈ റിസോഴ്സ് മാനേജ്മെന്റ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായി റിസോഴ്സ് മാനേജ്മെന്റ് മെക്കാനിസങ്ങൾ നിയന്ത്രിക്കുന്നതിനോ അല്ലെങ്കിൽ അതിൽ നിയന്ത്രണം എന്താണെന്ന് പ്രോസസ്സ് ചെയ്യുന്നതിനോ കഴിയണം നമ്മൾ ഏതെങ്കിലും റിസോഴ്സ് മാനേജ്മെന്റിനായി തിരയുമ്പോഴെല്ലാം ഒരു പ്ലേ റിസോഴ്സ് മാനേജ്മെന്റ് ടൂളുകളോ ടെക്നിക്കുകളോ ആ വ്യത്യസ്ത വശങ്ങളെല്ലാം നോക്കേണ്ടതുണ്ട് മൊത്തത്തിലുള്ള റിസോഴ്സ് മാനേജ്മെന്റ് ഈ ക്ലൌഡ് കമ്പ്യൂട്ടിംഗ് മാതൃകയുടെ അടിസ്ഥാന ലക്ഷ്യത്തെ ഇല്ലാതാക്കിയേക്കാം അത് ഉപയോഗയോഗ്യമായ സ്കേലബിളിറ്റിയും പരിമിതമായ വിഭവങ്ങളിലും തരത്തിലുള്ള കാര്യങ്ങളിലും നമുക്ക് അനുഭവപ്പെടാം നമ്മൾ ഈ വ്യത്യസ്ത മാട്രിക്സ് നോക്കേണ്ടതുണ്ട് മാട്രിക്സ് വ്യത്യസ്ത തരം ആവശ്യകതകളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് അതിനാൽ വ്യത്യസ്ത ഉപയോക്താവിന് വ്യത്യസ്ത ആവശ്യകതകൾ പ്രോസസ്സ് ചെയ്യാം വിശ്വാസ്യത വളരെ ഉയർന്നതായിരിക്കാം സേവനത്തിന്റെ ഗുണനിലവാരം എവിടെയെങ്കിലും ചില ആപ്ലിക്കേഷനുകൾ കാലതാമസമുണ്ടാകാം ചില ആപ്ലിക്കേഷനുകൾ കൃത്യതയുമായി ബന്ധപ്പെട്ടതാകാം റിസോഴ്സ് മാനേജ്മെന്റ് പ്രോസസ് റിസോഴ്സ് മാനേജ്മെന്റ് ടൂളുകളും ടെക്നിക്കുകളും ആ പാരാമീറ്ററുകൾ അടിസ്ഥാനമാക്കി നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട്